നേരത്തെ തവണ കണ്ടത് റേറ്റ് മോണോടോണിക് ഷെഡ്യൂളർ എന്താണ് അതുപോലെതന്നെ ഷെഡ്യൂൾ എബിലിറ്റി അനാലിസിസ് പിന്നെ ടാൻജെന്റ് ഓവർലോഡ് കൈകാര്യം ചെയ്യൽ എന്നിവ പോലുള്ള പ്രശ്നങ്ങളും ആണ് റേറ്റ് മോണോടോണിക് ഷെഡ്യൂളറനെക്കുറിച്ച് മനസിലാക്കാൻ ആവശ്യമായ ചില നിർദ്ദിഷ്ട പോയിന്റുകൾ ചുവടെ ചേർക്കുന്നു മറ്റൊന്ന് റേറ്റ് മോണോടോണിക് ഷെഡ്യൂളറിന്റെ പ്രവർത്തനവുമാണ് സ്വരച്ചേർച്ചയുമായി ബന്ധപ്പെട്ട ജോലികൾ ഒരു ടാസ്ക് സെറ്റ് ഹാർമോണിക് ആയിട്ട് ബന്ധപ്പെടണമെങ്കിൽ ആ ടാ സ്കിന് ഏതൊരു ടാസ്ക്കിനേക്കാളും ഉയർന്ന പീരിയഡ് ഉണ്ടായിരിക്കണം അത് ലോവർ പീരിയഡ് ടാസ്ക്കിന്റെ ഗുണിതമായിരിക്കണം നമുക്ക് 2 ടാസ്ക് എടുക്കാംTi Tk Ti യുടെ പീരീഡ് Pi Pk നേക്കാൾ വലുതാകട്ടെ Pi Pk യുടെ ചില ഗുണിതമാണ് ഇത് ടാസ്ക് സെറ്റിലെ എല്ലാ ജോലികൾക്കും ബാധകമാണ് എപ്പോൾ 2 ടാസ്ക് എടുത്താലും ഒരു ടാസ്കിൻറെ പീരീഡ് മറ്റൊന്നിനേക്കാൾ വലുതാണെങ്കിൽ ഒന്ന് മറ്റ് കാലഘട്ടത്തിന്റെ ഗുണിതമായിരിക്കണം ഉദാഹരണത്തിന് ഹാർമോണിക് ആയി ബന്ധപ്പെട്ട ടാസ്ക് സെറ്റിൽ ടാസ്ക് 1 കാലയളവ് 10 ഉം ടാസ്ക് 2 ന് കാലയളവ് 20 ഉം ടാസ്ക് 3 ന് കാലയളവ് 60 ഉം ആകട്ടെ ഈ സാഹചര്യത്തിൽ 2 അനിയന്ത്രിതമായ ടാസ്ക്കുകൾ T1 T2 എന്നിവ എടുക്കുകയും p2 p1 നെക്കാൾ വലുതാണെങ്കിൽ അത് p1 ന്റെ ഗുണിതം ആണ് P2 p3 എന്നിവ എടുക്കുകയും p3 p2 നേക്കാൾ വലുതാക്കുകയും ചെയ്യുന്നുവെങ്കിൽ p3 p2 ന്റെ ഗുണിതവും ഇത് എല്ലാ ജോഡി ടാസ്ക്കുകൾക്കുംബാധകം ആണെങ്കിൽ മുകളിലുള്ളത് ഹാർമോണിക് ആയി ബന്ധപ്പെട്ട ടാസ്ക്കുകളുടെ ഒരു ഉദാഹരണമാണ് എന്നാൽ വളരെ സവിശേഷ കരമായ ഒന്ന് നടക്കുന്ന ഒരു പ്രത്യേക കേസ് ആണ് ഇത് ഒരു ടാസ്ക് സെറ്റ് ഹാർമോണിക് ആയി ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ അതിൻറെ യൂട്ടിലൈസേഷൻ ഒന്നായിരിക്കും എന്നാൽ ഇപ്പോഴും ആ ടാസ്ക് സെറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ ഞാൻ പറ്റുന്നത് ആയിരിക്കും ഹാർമോണിക് ആയി ബന്ധപ്പെട്ട പീരിയഡ് ഉള്ള10 ടാസ്കുകൾ നമുക്ക് പരിഗണിക്കാം ലിയു ലേലാന്റ് മാനദണ്ഡംഉപയോഗിക്കുകയാണെങ്കിൽ0 7 പോലെയുള്ള ഒന്ന് കണ്ടെത്തും0 7 കുറവുള്ള യൂട്ടിലൈസേഷൻ ടാസ്ക് സെറ്റ് ഷെഡ്യൂൽ ചെയ്യാൻ കഴിയില്ലഇതാണ് ആണ് ലിയു ലൈലാൻഡ്ൻറെ ഏതൊരു ടാസ്കി ലും ഉള്ള പ്രയോഗം എന്നാൽ ഹാർമോണിക് ആയി ബന്ധമുള്ള ഉള്ള ചാക്ക് അ ടാസ്ക് സെറ്റിൻറെ യൂട്ടിലൈസേഷൻ 1 ആണ് എങ്കിൽ കൂടി അത്ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇതിൽ ചോദ്യം ഉയരും ഇവിടെ ഗണിതശാസ്ത്രപരമായി നിരക്കിന് അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഹാർമോണിക്കലുമായി ബന്ധപ്പെട്ട ടാസ്ക്കുകൾ സജ്ജമാക്കുക മോണോടോണിക് ഷെഡ്യൂളർ ൻറെ കീഴിൽഅതിന്റെ ഉപയോഗം 1 നേക്കാൾ കുറവോ തുല്യമോ ആണ് മുകളിൽ പറഞ്ഞവ തെളിയിക്കാൻ പ്രസ്താവന പൂർത്തീകരണ സമയ സിദ്ധാന്തം കണക്കിലെടുക്കുന്നു നമുക്കറിയാം പൂർത്തീകരണ സമയ സിദ്ധാന്തത്തിൽ ഓരോ ടാസ്ക് സെറ്റിനും നമുക്കറിയാം ei പിന്നെ ടാസ്കിന് എടുക്കുന്ന സ മയം astiപിന്നെ അത് എക്സിക്യൂഷൻ സമയവും അതിലെ ഉയർന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് എടുത്ത സമയവും മുൻഗണനാ ടാസ്ക്കുകൾ അതിന്റെ കാലയളവിനു മുമ്പായി വരുന്നതിനേക്കാൾ കുറവാണ് പരിശോധിച്ചു എന്നാൽ ഹാർമോണിക് ആയി ബന്ധമുള്ള ടാസ്ക് സെറ്റിൽ നമുക്ക് അറിയാം pi pk പ്രകാരം ഗുണിതം ആയിരിക്കും അതിനാൽ നമുക്ക് അതിൻറെ പരിധി എടുക്കാം എന്തുകൊണ്ടെന്നാൽ pi pk വച്ച് പൂർണ്ണമായി ഹരിക്കാം അതിനാൽ നമുക്ക് പരിധി എടുക്കാം എന്നിട്ട് ഇങ്ങനെ എഴുതാം ekpk അതിനാൽ eipi ഈ സമവാക്യത്തെ നമ്മൾ pi കൊണ്ട് ഹരി ച്ചാൽ ഇതുപോലെഎഴുതാം Pi പരിധിയിൽ നിന്ന് പുറത്തുവന്നതിനാൽ ഇത് ഡിവിഷൻ റദ്ദാക്കുന്നു അതിനാൽ അല്ലെങ്കിൽ നമുക്ക് ഈ പദപ്രയോഗം വീണ്ടും ഇതുപോലെഎഴുതാം പൂർത്തീകരണ സമയ സിദ്ധാന്തത്തിലൂടെ നമുക്ക് അത് കാണിക്കാൻ കഴിയും ടാസ്ക് സെറ്റിന്റെ യൂട്ടിലൈസേഷൻ 1 ൽ കുറവാണ് അത് അതിന്റെ സമയപരിധി പാലിക്കും നിരക്ക് മോണോടോണിക് ഷെഡ്യൂളറും ഇഡിഎഫും താരതമ്യപ്പെടുത്തുമ്പോൾ നിരക്ക് മോണോടോണിക് ഷെഡ്യൂളറിന് ധാരാളം നേട്ടങ്ങളുണ്ടെന്ന് കാണാൻ കഴിയും മൾട്ടി ലെവൽ മുൻഗണനാ ക്യൂവിൽ ഇത് നടപ്പിലാക്കുന്നത് കൂടുതൽ കാര്യക്ഷമമാണ് കൂടാതെ പ്രോസസർ ഉപയോഗം ഇഡിഎഫിനേക്കാൾ അല്പം കുറവാണ് കൂടാതെ സന്ദർഭ സ്വിച്ചുകൾ നോക്കുമ്പോൾ നിരക്ക് മോണോടോണിക് ഷെഡ്യൂളറിന് ഇഡിഎഫിനേക്കാൾ അല്പം കൂടുതൽ സന്ദർഭ സ്വിച്ചുകൾ ഉണ്ട് ഗ്യാരണ്ടി ടെസ്റ്റ് അല്പം നിസ്സാരമല്ലാത്തത് ഞങ്ങൾ ലിയു ലെഹോസ്കിസ് അല്ലെങ്കിൽ ലിയു ലെയ്ലാൻഡ് മാനദണ്ഡം പരിശോധിക്കേണ്ടതുണ്ട് അതേസമയം ഇഡിഎഫ് ലളിതമായ ഉപയോഗമാണ് അതായത് ഉപയോഗത്തിന്റെ തുക 1 ൽ കുറവാണ് റേറ്റ് മോണോടോണിക് ഷെഡ്യൂളർ വളരെയധികം ജനപ്രിയമാണ് ബഹിരാകാശ ആപ്ലിക്കേഷനുകൾ നൂതന ഓട്ടോമേഷൻ സംവിധാനങ്ങൾ ധാരാളം എംബെഡഡ് ആപ്ലിക്കേഷനുകൾ IEEE ഫ്യൂച്ചർ ബസിന്റെ സവിശേഷതയെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും പല സമയ നിർണായക ആപ്ലിക്കേഷനുകളിലും റേറ്റ് മോണോടോണിക് ഷെഡ്യൂളർ മിക്കവാറും എല്ലാ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഉപയോഗിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ചില റേറ്റ് മോണോടോണിക് ഷെഡ്യൂളർ പൊതുവൽക്കരണങ്ങൾ നോക്കാം കാരണം ചില വ്യവസ്ഥകൾ കൈകാര്യം ചെയ്യാത്തതിനാൽ ഞങ്ങൾ നോക്കിയ ലളിതമായ അൽഗോരിതം അതിനാൽ ഈ സാഹചര്യങ്ങൾ നിറവേറ്റുന്ന മറ്റ് ചില മെച്ചപ്പെടുത്തലുകൾ നമുക്ക് ആവശ്യമാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഡെഡ്ലൈൻ മോണോടോണിക് അൽഗോരിതം ആണ് ഇത് റേറ്റ് മോണോടോണിക് അൽഗോരിതിമിലെ ഒരു ചെറിയ വ്യതിയാനം മാത്രമാണ് കൂടാതെ ടാസ്ക് സമയപരിധിയും കാലഘട്ടങ്ങളും വ്യത്യസ്തമാകുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടതുണ്ട് മുമ്പ് നമ്മുടെ എല്ലാ ഉദാഹരണങ്ങളിലും ടാസ്ക് കാലയളവും സമയപരിധിയും ഒന്നുതന്നെയായിരുന്നു പരിഗണിച്ചിരുന്നത് എന്നാൽ പ്രായോഗിക ആപ്ലിക്കേഷനുകളിൽ ടാസ്ക് സമയപരിധിയും കാലാവധിയും വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ടാകാം ഉദാഹരണത്തിന് സമയപരിധി കാലയളവിനേക്കാൾ കുറവായിരിക്കാം അല്ലെങ്കിൽ സമയപരിധി കാലയളവിനേക്കാൾ കൂടുതലായിരിക്കാം സമയപരിധി ഒരു കാലയളവിനേക്കാൾ കൂടുതലായതിനാൽ സമയപരിധി കാലയളവിനേക്കാൾ കുറവായ നിരവധി കേസുകളുണ്ട് സമയപരിധി കാലയളവിന് തുല്യമല്ലാത്ത സാഹചര്യങ്ങളിൽ റേറ്റ് മോണോടോണിക് അൽഗോരിതം ശരിക്കും ഒപ്റ്റിമൽ ഷെഡ്യൂളിംഗ് തന്ത്രമല്ല ഈ സാഹചര്യങ്ങളിൽ ഡെഡ് ലൈൻ മോണോടോണിക് അൽഗോരിതം ആണ് അനുയോജ്യം ഡെഡ്ലൈൻ മോണോടോണിക് അൽഗോരിതം പിന്നിലെ പ്രധാന ആശയം റേറ്റ് മോണോടോണിക് അൽഗോരിതം പോലെയാണ് 2 ടാസ്ക്കുകളുടെ മുൻഗണനകൾ അവയുടെ കാലയളവുകളേക്കാൾ അവയുടെ സമയപരിധിയെ അടിസ്ഥാനമാക്കിയാണ് നിർണ്ണയിക്കുന്നത് എന്നത് ഒഴിച്ചാൽ അങ്ങനെ ഒരു ടാസ്ക്കിന് മറ്റൊരു ടാസ്ക്കിനേക്കാൾ ഉയർന്ന കാലയളവ് ഉണ്ടെങ്കിലും അതിന് കുറഞ്ഞ സമയപരിധി ഉണ്ടെങ്കിൽ പോലും അതിന് ഉയർന്ന മുൻഗണന ലഭിക്കുന്നു ആദ്യം ആർഎംഎയും ഡിഎംഎയും ചെയ്യുന്ന ഈ ചോദ്യത്തിന് ഉത്തരം നൽകാം അതായത് റേറ്റ് മോണോടോണിക് അൽഗോരിതം ഡെഡ്ലൈൻ മോണോടോണിക് അൽഗോരിതം എന്നിവ രണ്ടും ചില സാഹചര്യങ്ങളിൽ സമാന ഷെഡ്യൂൾ ഉൽപാദിപ്പിക്കുന്നു പിരീഡും സമയപരിധിയും ഒന്നുതന്നെയാണെങ്കിൽ ഡെഡ്ലൈൻ മോണോടോണിക് അൽഗോരിതം റേറ്റ് മോണോടോണിക് അൽഗോരിതം ലളിതമാക്കുന്നു എന്നതാണ് ഉത്തരം പക്ഷേ ഏകപക്ഷീയമായ ആപേക്ഷിക അന്തിമകാലാവധിക്ക് സമയപരിധി വ്യത്യസ്ത ഷെഡ്യൂളുകൾ സൃഷ്ടിച്ച കാലയളവിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഉദാഹരണത്തിന് റേറ്റ് മോണോടോണിക് അൽഗോരിതം പരാജയപ്പെടുമ്പോഴും ഡെഡ്ലൈൻ മോണോടോണിക് ഷെഡ്യൂളർ പ്രായോഗിക പരിഹാരവുമായി വരാം മറുവശത്ത് ഡെഡ്ലൈൻ മോണോടോണിക് ഷെഡ്യൂളർ പരാജയപ്പെടുമ്പോഴെല്ലാം റേറ്റ് മോണോടോണിക് ഷെഡ്യൂളർ തീർച്ചയായും പരാജയപ്പെടും നമ്മുടെ ഉദ്ദേശ്യത്തിനായി റേറ്റ് മോണോടോണിക് ഷെഡ്യൂളർ ഇല്ലാതിരിക്കുമ്പോൾ ഡെഡ്ലൈൻ മോണോടോണിക് അൽഗോരിതം സാധ്യമായ ഒരു ഷെഡ്യൂൾ സൃഷ്ടിക്കാൻ നമുക്ക് അതിന്റെ ഫേസ് മൂല്യം ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഞങ്ങൾക്ക് T1 T2 T3 എന്നീ 3 ടാസ്ക്കുകൾ അടങ്ങിയ ഒരു ടാസ്ക് സെറ്റ് ഉണ്ട് അവയുടെ നിർവ്വഹണ സമയം 10 15 20 കാലയളവ് 1510020 സമയപരിധി യഥാക്രമം T1 T2 T3 ന് 3520200 മില്ലിസെക്കൻഡാണ് റേറ്റ് മോണോടോണിക് അൽഗോരിതം ഡെഡ് ലൈൻ മോണോടോണിക് അൽഗോരിതം എന്നിവ ഉപയോഗിച്ച് അവയുടെ ഷെഡ്യൂളബിളിറ്റി പരിശോധിക്കുന്നു റേറ്റ് മോണോടോണിക് അൽഗോരിതം പ്രയോഗിക്കുമ്പോൾ ടാസ്ക് T1 ആണ് ഏറ്റവും ഉയർന്ന മുൻഗണനയുള്ള ചുമതല ടാസ്ക് T2 രണ്ടാമത്തെ ഉയർന്ന മുൻഗണനയും T3 ഏറ്റവും കുറഞ്ഞ മുൻഗണനാ ചുമതലയുമാണ് എന്നാൽ ഡെഡ്ലൈൻ മോണോടോണിക്അൽഗോരിതം വച്ച്ടാസ്ക് T2 ഏറ്റവും ഉയർന്ന മുൻഗണനയുള്ള ജോലിയാണ് കാരണം ഇതിന് ഏറ്റവും കുറഞ്ഞ സമയപരിധി ഉണ്ട് ടാസ്ക് T 1 രണ്ടാമത്തെഏറ്റവും ഉയർന്ന മുൻഗണനാ ചുമതലയും ടാസ്ക് T3 ഏറ്റവും കുറഞ്ഞ മുൻഗണനയുമാണ് ടാസ്കുകൾക്ക് നൽകിയിട്ടുള്ള മുൻഗണനകൾ വ്യത്യസ്തമാണെന്നും ഇവിടെയുള്ള ബുദ്ധിമുട്ട് എന്തെന്നാൽ റേറ്റ് മോണോടോണിക് വിശകലനം കംപ്ലീഷൻ ടൈം തിയറം ലിയു ലെയ്ലാൻഡ് മാനദണ്ഡം മുതലായവയ്ക്ക് ലഭിച്ച ഫലങ്ങൾ ഡെഡ്ലൈൻ മോണോടോണിക്അൽഗോരിതം ബാധകമല്ല കാരണം ഇവിടെ സമയപരിധി അസൈൻമെന്റ് മോണോടോണിക് അൽഗോരിതം എന്നതിനേക്കാൾ വ്യത്യസ്തമാണ് റേറ്റ് മോണോടോണിക് വിശകലനത്തിനായുള്ള ലിയു ലെയ്ലാൻഡ് മാനദണ്ഡം പരിശോധിക്കുമ്പോൾ ഇത് ഷെഡ്യൂൾ ചെയ്യാനാകില്ലെന്ന് നിരീക്ഷിച്ചു തുടർന്ന് ഡെഡ് ലൈൻ മോണോടോണിക് അൽഗോരിതം പൂർത്തിയാക്കി സമയപരിശോധന നടത്തി തുടർന്ന് സജ്ജീകരിച്ച എല്ലാ ജോലികളും അവയുടെ ആദ്യത്തെ സമയപരിധി പാലിക്കുന്നുണ്ടോ എന്നും പരിശോധിച്ചു അവസാനമായി ഇത് നിരീക്ഷിക്കപ്പെട്ടു ഡെഡ് ലൈൻ മോണോടോണിക് അൽഗോരിതം പ്രകാരം ടാസ്ക് സെറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ കഴിഞ്ഞു കോണ്ടെസ്റ് സ്വിച്ചിംഗ് പ്രായോഗികമായി പ്രധാനമായ മറ്റൊരു വശം ഇനിപ്പറയുന്നവയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്കായുള്ള കോണ്ടെസ്റ് സ്വിച്ചിംഗ് സമയം ഗണ്യമായതാണ് ചിലപ്പോൾ ചെറിയ ടാസ്ക് നിർവ്വഹണ സമയങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ടാസ്ക് നിർവ്വഹണ സമയം കുറച്ച് മില്ലിസെക്കൻഡുകളുടെ ക്രമത്തിൽ 50 20 അല്ലെങ്കിൽ 10 മില്ലിസെക്കൻഡായിരിക്കാം അതേസമയം കോണ്ടെസ്റ് സ്വിച്ചിംഗ് സമയം സാധാരണയായി 1 മില്ലിസെക്കൻഡാണ് ടാസ്ക് സമയപരിധിയും ടാസ്ക് നിർവ്വഹണ സമയവും അടുത്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോണ്ടെസ്റ് സ്വിച്ച് സമയങ്ങളുമായി ടാസ്കുമായി താരതമ്യപ്പെടുത്താം തുടർന്ന് ഇത് നമ്മുടെ വിശകലനത്തിൽ അവഗണിക്കാൻ കഴിയില്ല റേറ്റ് മോണോടോണിക് വിശകലനത്തിൽ കോണ്ടെസ്റ് സ്വിച്ചിംഗ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഞങ്ങളുടെ പരിഹാരത്തിന്റെ പ്രധാന കാര്യം ടാസ്ക് മുൻഗണനകൾ എപ്പോൾ സംഭവിക്കുമെന്നതും ടാസ്ക് മുൻഗണന ലഭിക്കുമ്പോഴെല്ലാം കോണ്ടെസ്റ് സ്വിച്ച് സമയം പരിഗണിക്കേണ്ടതുമാണ് കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് പ്രവർത്തിക്കുമ്പോഴും ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് എത്തുമ്പോഴും ടാസ്ക് പ്രീഎംഷൻ സംഭവിക്കാം ഇവിടെ ഉയർന്ന മുൻഗണനാ ചുമതല കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക്കിനെ മുൻകൂട്ടി കാണിക്കുന്നു മാത്രമല്ല ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് പൂർത്തിയാകുമ്പോൾ വീണ്ടും ഏറ്റവും കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് അതിന്റെ നിർവ്വഹണം പുനരാരംഭിക്കുന്നു ഇവിടെ വീണ്ടും ഒരു കോണ്ടെസ്റ് സ്വിച്ച് ഉണ്ട് ഏറ്റവും മോശം അവസ്ഥയിൽ ഓരോ തവണയും ഒരു ടാസ്ക് എത്തുമ്പോൾ അത് മിക്കവാറും ഒരു കോണ്ടെസ്റ് സ്വിച്ചിന് കാരണമാകാം കാരണം പ്രവർത്തിക്കുന്ന ടാസ്ക് സ്വിച്ച ആണ് വീണ്ടും അത് പൂർത്തിയാകുമ്പോൾ ഒരു കോണ്ടെസ്റ് സ്വിച്ച് ഉണ്ടാകാം പക്ഷേ നമുക്ക് ഇതിലൂടെ എളുപ്പത്തിൽ നോക്കാൻ കഴിയുന്നത് പോലെ ഇത് വളരെ യാഥാസ്ഥിതിക വിശകലനമാണെന്ന് പറയാൻ കഴിയും കാരണം ഓരോ തവണയും കുറഞ്ഞ മുൻഗണനാ ചുമതല പ്രവർത്തിക്കുന്നുവെന്നും ഉയർന്നതാണെന്നും ഞങ്ങൾ അനുമാനിക്കുന്നു മുൻഗണനാ ചുമതല വരുന്നു ഒരു കോണ്ടെസ്റ് സ്വിച്ച് ഉണ്ട് എന്നാൽ ചില സമയങ്ങളിൽ ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് പ്രവർത്തിക്കുന്നുണ്ടെന്നും കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് എത്തുമെന്നും നമ്മൾ അവഗണിക്കുന്നു കോണ്ടെസ്റ് സ്വിച്ച് ഇല്ല എന്നാൽ തത്സമയ സംവിധാനങ്ങളിൽ നമ്മുടെവിശകലനങ്ങളെല്ലാം യാഥാസ്ഥിതിക വിശകലനമാണ് നമ്മൾഏറ്റവും മോശം അവസ്ഥ നോക്കുകയും മോശമായ ഒരു വിശകലനം നടത്തുകയും ചെയ്യുന്നു അതിനാൽ ഒരു ടാസ്ക് എത്തുമ്പോഴെല്ലാം അത് 2 കോണ്ടെസ്റ് സ്വിച്ചുകൾക്ക് കാരണമാകുമെന്ന് ഞങ്ങൾ കരുതുന്നത് ശരിയാണ് ഒന്നാമതായി പ്രവർത്തിക്കുന്ന ടാസ്ക് കോണ്ടെസ്റ് സ്വിച്ച് ചെയ്യുകയും എത്തിച്ചേരുന്ന ടാസ്ക് റൺ ചെയ്യുകയും ചെയ്യുന്നു രണ്ടാമതായി ടാസ്ക് പൂർത്തിയാകുമ്പോൾ ഇതിനകം കോണ്ടെസ്റ് സ്വിച്ച് ചെയ്ത ഒന്ന് അതിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നു അതിനാൽ ഓരോ ടാസ്ക് വരവിനും 2 കോണ്ടെസ്റ് സ്വിച്ചുകൾ ഉണ്ട് ഇത് മനസിലാക്കുമ്പോൾ കോണ്ടെസ്റ് സ്വിച്ച് ഓവർഹെഡുകൾ എടുക്കുന്നതിനുള്ള ഉത്തരം വളരെ ലളിതമായിത്തീരുന്നു ഓരോ ടാസ്ക് ഉദാഹരണവും അതായത് ഓരോ ജോലിയും ഏകദേശം 2 കോണ്ടെസ്റ് സ്വിച്ചുകൾ ഉൾക്കൊള്ളുന്നുവെന്ന് അനുമാനിക്കുന്നു ഇത് പ്രവർത്തിപ്പിക്കാൻ ആരംഭിക്കുമ്പോൾ നിലവിൽ നിർവ്വഹിക്കുന്ന ടാസ്ക്കുകളും അത് പൂർത്തിയാകുമ്പോൾ മുൻകൂട്ടി അറിയിക്കുന്നു കോണ്ടെസ്റ് സ്വിച്ച് സമയം സ്ഥിരമാണെന്നും ഏറ്റവും മോശം സാഹചര്യമാണെന്നും അനുമാനിക്കുമ്പോൾ കോണ്ടെസ്റ് സ്വിച്ച് സമയം സി മില്ലിസെക്കൻഡാണ് അതിനാൽ ടാസ്ക്കുകളുടെ ഓരോ സംഭവത്തിനും എക്സിക്യൂഷൻ സമയത്തിലേക്ക് 2 സി ചേർത്തുകൊണ്ട് കോണ്ടെസ്റ് സ്വിച്ചിംഗിന്റെ ഫലം എടുക്കാം ഈ ഫലത്തിൽ നമ്മുടെ ടാസ്ക് സെറ്റ് ഓരോ ജോലിയുടെയും നിർവ്വഹണ സമയം 2 സി വർദ്ധിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റുന്നു എന്നാൽ ഏറ്റവും കുറഞ്ഞ മുൻഗണനാ ചുമതലകൾ അവർ ഒരിക്കലും സന്ദർഭത്തിൽ മാറ്റുന്നില്ലെന്ന് കാണുമ്പോൾ ചോദ്യം 2 സി പരിഗണിക്കുമ്പോൾ ഒന്നും പ്രവർത്തിക്കാത്തതിനാൽ ഇത് 1 സി ആകാം അത് പ്രവർത്തിക്കാൻ തുടങ്ങി എന്നാൽ ഒരു മോശം അവസ്ഥ വിശകലനം നടത്തുന്നു ഒപ്പം ഓരോ ജോലിക്കും ഇത് 2 സി വർദ്ധിപ്പിക്കും ഉദാഹരണത്തിന് നമുക്ക് ഒരു ടാസ്ക് സെറ്റ് ടി 1 ടി 2 ടി 3 ഉണ്ട് അവയുടെ നിർവ്വഹണ സമയം 10 25 50 മില്ലിസെക്കൻഡുകളാണ് സമയപരിധിയോടൊപ്പം കാലയളവുകളും യഥാക്രമം 50 150 200 മില്ലിസെക്കൻഡാണ് തുടർന്ന് കോണ്ടെസ്റ് സ്വിച്ച് സമയം 1 മില്ലിസെക്കൻഡാണ് തുടർന്ന് ടാസ്ക് സെറ്റ് ഷെഡ്യൂൾ ചെയ്യാനാകുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് കോണ്ടെസ്റ് സ്വിച്ചിംഗ് സമയം കണക്കിലെടുക്കുന്നതിന് ഓരോ ജോലിയുടെയും നിർവ്വഹണ സമയം 2 മില്ലിസെക്കൻഡ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെപുതിയ ടാസ്ക് സെറ്റ് 10 25 50 എന്നിവയിൽ നിന്ന് 12 27 52 മില്ലിസെക്കൻഡായി മാറുന്നു 12 മില്ലിസെക്കൻഡ് 50 മില്ലിസെക്കൻഡിൽ കുറവാണ് ഇവിടെ ടാസ്ക് T1 ന് ഏറ്റവും ഉയർന്ന മുൻഗണനയുണ്ട് അത് ഷെഡ്യൂൾ ചെയ്യാവുന്നതുമാണ് ഓരോ എക്സിക്യൂഷൻ സംഭവത്തിനും 2 കോൺടെക്സ്റ്റ് സ്വിച്ച് എടുത്ത ശേഷം രണ്ടാമത്തെ ടാസ്ക് പരിശോധിക്കുമ്പോൾ അതിന്റെ 27 മില്ലിസെക്കൻഡ് ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് പരമാവധി 3 തവണയും 27 12 ∗ 3 65 150 ms എത്താൻ കഴിയും അതിനാൽ T2 ഷെഡ്യൂൾ ചെയ്യാൻ കഴിയും ടാസ്ക് ടി 3 യ്ക്കും ഇത് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ് കോണ്ടെസ്റ് സ്വിച്ച് കണക്കിലെടുത്ത് 52 മില്ലിസെക്കൻഡ് പരിശോധിക്കേണ്ടതുണ്ട് ഇത് അവർ എടുക്കുന്ന രണ്ട് ഉയർന്ന മുൻഗണനാ ജോലികളാണ് ഈ എക്സിക്യൂഷൻ സമയം അർത്ഥമാക്കുന്നത് കാലയളവാണ് അതിനാൽ ഇത് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ് ഏറ്റവും മോശം കോണ്ടെസ്റ് സ്വിച്ച് സമയത്തിൽ നമ്മൾ പരിഗണിക്കുന്ന ലളിതമായ അനുമാനങ്ങൾക്ക് കീഴിലുള്ള കോണ്ടെസ്റ് സ്വിച്ച് സമയം കണക്കിലെടുക്കുകയും ഈ 2 സന്ദർഭത്തിനായുള്ള ഓരോ ടാസ്ക് വരവും മാറുകയും ചെയ്യുന്നു ഇതിന് കീഴിൽ ഒരു പ്രായോഗിക സാഹചര്യത്തിനായി ഒരു വിശകലനം നടത്തി ഇനിപ്പറയുന്ന ടാസ്ക് സെറ്റ് ഷെഡ്യൂൾ ചെയ്യാനാകുമോയെന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു പ്രശ്നം ഇനിപ്പറയുന്നവയാണ് നമുക്ക് മൂന്ന് വ്യത്യസ്ത ടാസ്ക്കുകൾ ഉണ്ട് വ്യത്യസ്ത നിർവ്വഹണ സമയങ്ങളുള്ള T1T 2T 3 10 5 9 ms കാലയളവുകൾ 50 20 30 ms ഏറ്റവും മോശം അവസ്ഥയിൽ കോൺടെക്സ്റ്റ് സ്വിച്ച് ഓവർഹെഡ് 1 മില്ലിസെക്കൻഡാണെന്നും അത് 11 7 12 ആയി മാറുന്നുവെന്നും അനുമാനിക്കപ്പെടുന്നു പക്ഷേ എക്സിക്യൂഷൻ 2 മില്ലിസെക്കൻഡ് വർദ്ധിപ്പിക്കും അപ്പോൾ ഏറ്റവും ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക്കുകളുടെയും ടാസ്ക്കിന്റെയും മുൻഗണനകളെക്കുറിച്ച് ചോദ്യം ഉയരുന്നു പിരീഡ് പരിശോധിക്കുമ്പോൾ T2 ന് ഏറ്റവും കുറഞ്ഞ കാലയളവാണെന്നും അതിന് ഉയർന്ന മുൻഗണനയുണ്ടെന്നും കണ്ടെത്തി അതിനാൽ T2 ന് മുൻഗണന 1 T3 ന് മുൻഗണന 2 T1 ന് ഏറ്റവും കുറഞ്ഞ മുൻഗണന ചില ജോലികൾ അങ്ങേയറ്റം നിർണായകമാകുന്ന മറ്റൊരു സാഹചര്യം നമുക്ക് പരിശോധിക്കാം എന്നാൽ ഇത് ഏറ്റവും ചെറിയ ജോലിയല്ല കാരണം അതിന്റെ കാലയളവ് ചില ജോലികളേക്കാൾ വലുതാണ് എന്നിട്ട് ലളിതമായ റേറ്റ് മോണോടോണിക് പ്രിയോറിറ്റി അസൈൻമെൻറ് പോലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചോദ്യം ഉയരുന്നു മുൻഗണനകൾ നൽകി സംഭവിക്കുന്നതിന്റെ ആവൃത്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ കാലയളവിന് ഉയർന്ന മുൻഗണന ലഭിക്കുന്ന ആവർത്തന കാലഘട്ടത്തെക്കുറിച്ചോ എന്നാൽ ഉയർന്ന കാലയളവിലുള്ള ചില ജോലികൾക്ക് ഏറ്റവും വിമർശനാത്മകതയുണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ ഈ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നത് പ്രധാന ആശങ്കയാണ് ഇതിന് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുന്നത് ഞങ്ങളുടെ എല്ലാ ഷെഡ്യൂൾ കഴിവ് ഫലങ്ങളും ഉപയോഗയോഗ്യമല്ലാതാക്കും ഒരു ടാസ്ക് പിരീഡ് 100 ആണെങ്കിൽ ഞങ്ങൾ അതിനെ മുൻഗണന 1 ആയി നിർണ്ണയിക്കുന്നുവെങ്കിൽ 20 50 മുതലായ മറ്റ് ടാസ്ക്കുകൾ ഉള്ളപ്പോൾ അവയ്ക്ക് കുറഞ്ഞ മുൻഗണന നൽകുമ്പോൾ ലിയു ലെയ്ലാൻഡ് ലിയു ലെഹോസ്കി മാനദണ്ഡം മുതലായവ ഉപയോഗിക്കാൻ പ്രയാസമാണ് അത്തരം പ്രശ്നങ്ങൾക്ക് 1989 ൽ പീരിയഡ് ട്രാൻസ്ഫോർമേഷൻ രീതി എന്നറിയപ്പെടുന്ന ഷായും രാജ് കുമാറും നിർദ്ദേശിച്ച ഒരു പരിഹാരം ഒരു നിർണായക ദൌത്യത്തിന് ദൈർഘ്യമേറിയതോ സംഭവിക്കുന്നതിന്റെ ആവൃത്തി കുറവോ ആയ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡ് സാങ്കേതികതയാണിത് നിർണായക ചുമതലയെ ചെറിയ ഉപ ടാസ്കുകളായി വിഭജിക്കുക എന്നതാണ് ഇവിടെ പ്രധാന ആശയം ഞങ്ങൾ ശാരീരികമായി ഉപവിഭജനം നടത്തുകയോ കോഡ് പുറത്തെടുക്കുകയോ വിഭജിക്കാൻ തുടങ്ങുകയോ ചെയ്യുന്നത് വിശകലനത്തിന് മാത്രമുള്ളതല്ല ഇതിന്റെ എക്സിക്യൂഷൻ സമയം കണക്കാക്കുകയും അത് k ഭാഗങ്ങളായി വിഭജിക്കുകയും ഓരോ ഭാഗവും ei k സമയപരിധി di k എന്നിവയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇത് 2 ഭാഗങ്ങളായി വിഭജിച്ച് ടാസ്ക് നിർവ്വഹണ സമയം 50 ഉം കാലയളവ് 100 ഉം ആണെങ്കിൽ അവ യഥാർത്ഥത്തിൽ ഓരോരുത്തരുടെയും എക്സിക്യൂഷൻ സമയം 25 ഉം കാലയളവ് 50 ഉം ആയിരുന്ന 2 ടാസ്ക്കുകളാണെന്ന് അനുമാനിക്കാം ഈ രീതിയിൽ അതിന്റെ മുൻഗണന വർദ്ധിപ്പിക്കുകയും ലിയു ലെയ്ലാൻഡിന്റെയും ലിയു ലെഹോസ്കിയുടെയും ഫലങ്ങൾ Liu Layland and Liu Lehoczky's resultsഇപ്പോഴും ബാധകമായിരുന്നു അതിനാൽ കോഡിൽ തന്നെ മാറ്റം വരുത്തുന്നതിനേക്കാൾ ആശയപരമായ തലത്തിലാണ് ടാസ്ക് വിഭജനം നടത്തുന്നത് ഉദാഹരണത്തിന് നമുക്ക് 2 ടാസ്ക്കുകളുണ്ടെന്ന് കരുതുക ടി 1 ന് ഓരോ 20 മില്ലിസെക്കൻഡിനും 5 മില്ലിസെക്കൻഡും ടി 2 ന് ഓരോ 30 മില്ലിസെക്കൻഡിനും 8 മില്ലിസെക്കൻഡും ആവശ്യമാണ് ടി 2 നിർണായക ചുമതലയാണെന്ന് കരുതുക അതിനാൽ ടി 1 ന്റെ ഒരു സമയപരിധി നഷ്ടപ്പെടുത്തരുത് ഇവിടെ T2 ന് ഉയർന്ന മുൻഗണന നൽകുന്നു അത്തരമൊരു സാഹചര്യത്തിൽ T2 യിൽ T2a T2b എന്നീ 2 ജോലികൾ അടങ്ങിയിരിക്കുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു ഓരോന്നിനും എക്സിക്യൂഷൻ സമയം 4 ഉം 50 കാലഘട്ടവും ഉണ്ട് ഇതിനുശേഷം റേറ്റ് മോണോടോണിക് വിശകലന ഫലങ്ങൾ ഉപയോഗിക്കാൻ കഴിയും അപെരിയോഡിക് വിരളമായ ജോലികൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതാണ് അടുത്ത ചോദ്യം അപീരിയോഡിക് ടാസ്ക്കുകൾ ക്രമരഹിതമായി എത്തുന്ന ടാസ്ക്കുകളാണെന്ന് അറിയാമെങ്കിലും അവയ്ക്ക് ഒരു സമയപരിധി ഇല്ല എന്നാൽ വിരളമായ ജോലികൾ ക്രമരഹിതമായി എത്തുമെങ്കിലും അവ പൂർത്തിയാക്കേണ്ട ചില സമയപരിധി ഉണ്ട് വിരളമായ ടാസ്ക്കുകൾക്ക് മുൻഗണനകൾ നൽകിയിട്ടുണ്ടെങ്കിൽ തത്സമയ ഷെഡ്യൂളർ ഉപയോഗശൂന്യമാകും കാരണം സ്ലോട്ടുകൾ ശൂന്യമാകും കാരണം വിരളമായ ടാസ്ക്കുകൾ ക്രമരഹിതമായി വരുന്നു മാത്രമല്ല ഇത് പതിവ് ആനുകാലിക ടാസ്ക്കുകൾ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാം ഇടയ്ക്കിടെയുള്ള ജോലികൾ ക്രമരഹിതമായി സംഭവിക്കാനിടയുള്ളതിനാൽ ഇത് മുൻഗണന കുറഞ്ഞ ജോലികൾ അവരുടെ സമയപരിധി നഷ്ടപ്പെടുത്തും അതിനാൽ ഇതിനുള്ള പരിഹാരം അപീരിയോഡിക് സെർവർ സാങ്കേതികതയാണ് കൂടാതെ അപീരിയോഡിക് സെർവറിനെക്കുറിച്ചും അത് റേറ്റ് മോണോടോണിക് ചട്ടക്കൂടിനുള്ളിലെ അപീരിയോഡിക് ടാസ്ക്കുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതും അടുത്ത ക്ലാസിൽ നോക്കാം നന്ദി